സെൽ കൾച്ചർ ടെക്നോളജിയുടെ ലെക്ചർ പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫൈൻഡ് സിസ്റ്റത്തെ പറ്റിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് ശേഷം അതിൻറെ ഉത്ഭവം എങ്ങനെയാണെന്നും ഡിഫൈൻഡ് സിസ്റ്റം എങ്ങനെ നേടിയെടുക്കാം എന്നും ഈ ക്ലാസ്സിൽ സംസാരിക്കാമെന്ന് തീരുമാനിച്ചു നമ്മൾ ഇപ്പോൾ ഡിഫൈൻഡ് സിസ്റ്റത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് അതിനായി സെൽ കൾച്ചർ ടെക്നോളജിയിൽ പ്രധാന പങ്കാളിത്തം വഹിക്കുന്നത് ആരാണെന്ന് നോക്കണം സെൽ കൾച്ചർ ടെക്നോളജിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ പങ്കാളികളിൽ ഒരാൾ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായങ്ങളാണ് എന്തുകൊണ്ടാണ് കാരണം ഏതുതരം ഡ്രഗ് ഡിസ്കവറി ആണെങ്കിലും വ്യത്യസ്ത ചാനലുകളിലൂടെയും നടപടി ക്രമങ്ങളിലൂടെയും കടന്നുപോകും ആദ്യം ആയി കെമിസ്റ്റുകൾ y എന്ന ഒരു പ്രത്യേക രോഗത്തിനായി x തന്മാത്രകളെ ഉണ്ടാകും അതല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നോ മറ്റ് സ്രോതസ്സുകളിൽ നിന്നോ ആ പ്രത്യേക പാത്തോളജിക്കൽ സാഹചര്യത്തിനായി x തന്മാത്രകളെ വേർതിരിച്ചെടുകും ശേഷം ഇവ തീർച്ചയായും പരിശോധനയ്ക്ക് വിധേയമാകണം എന്നാൽ നേരിട്ട് മൃഗ പരിശോധനയിലേക്ക് പോകാൻ കഴിയില്ല അവർ സെൽ കൾച്ചർ ടെസ്റ്റ് അഥവാ ഇൻ വിട്രോ പരിശോധനകൾ നടത്തണം അതിനാൽ ആദ്യ പരിശോധന സെൽ കൾച്ചർ ആണ് ഇന്ന് നമ്മൾ അഞ്ചാമത്തെ ആഴ്ചയിലെ രണ്ടാമത്തെ ലെക്ചറിൽ ആണ് W 5 L 2 ഇന്ന് നമ്മൾ തുടങ്ങുന്നതിൽ ഒന്നാമത് ഡിഫൈൻ സിസ്റ്റത്തിൻറെ ഉത്ഭവം രണ്ടാമത് ഡിഫൈൻ സിസ്റ്റത്തിൻറെ ആവശ്യകത പിന്നെ എങ്ങനെ ഒരു ഡിഫൈൻഡ് സിസ്റ്റം നേടാമെന്നുമാണ് ഇപ്പോൾ ഞാൻ ഇതിൽ നിന്നും വേറിട്ട ഒരു കാര്യമാണ് പറഞ്ഞത് ഡ്രഗ് ഡിസ്കവറി വ്യവസായവും ഡ്രഗ് ഡിസ്കവറി പ്രക്രിയയും ഇവയൊക്കെ സെൽ കൾച്ചർനെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു ഇൻ വിവോ ട്രയൽ അഥവാ മൃഗങ്ങളിൽ ട്രയൽ നടത്തുന്നതിന് മുൻപാണ് സെൽ കൾച്ചർ ട്രയൽസ് അതായത് ഇൻ വിട്രോ ട്രയൽസ് ഇപ്പോൾ ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ചതിനാൽ നിങ്ങൾ ഇനി ഇതിനെ കുറിച്ചു ചിന്തിക്കണം ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചിന്തിക്കാൻ ഒരു പ്രക്രിയ ആവശ്യമാണ് ഉദാഹരണത്തിന് നമുക്ക് ഒരു കാര്യം തെളിയിക്കണം അതായത് സിസ്റ്റം അൽഷിമേഴ്സിനെ Alzheimer's തടയുന്ന ഒരു മരുന്നിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നിരിക്കട്ടെ ഇനി ഇത് പരീക്ഷിക്കേണ്ടതുണ്ട് അതിനായി ആദ്യം ഇൻ വിട്രോ സജ്ജീകരണം ആവശ്യമാണ് ഇനി ഞാൻ ഇതുപോലെയാണ് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നത് അതായത് ഉദാഹരണത്തിന് നമുക്ക് ഒരു വ്യവസായം ഉണ്ട് എന്നിരിക്കട്ടെ ഇവിടെ നമുക്കൊരു കേസ് സ്റ്റഡി ഉണ്ടാവും അതൊരു സാങ്കല്പിക കേസ് സ്റ്റഡി ആയിരിക്കും എന്നാൽ ഈ സാങ്കൽപിക കേസ് സ്റ്റഡി അഥവാ ഹൈപൊതെട്ടിക്കൽ കേസ് സ്റ്റഡി ഡിഫൈൻഡ് സിസ്റ്റം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും അതിനാൽ ഡിഫൈൻഡ് സിസ്റ്റത്തിലേക്ക് മറ്റൊരു രീതിയിൽ വരാം ഉദാഹരണത്തിന് ഡ്രഗ് ഡിസ്കവറി പ്രക്രിയ ഈ പ്രക്രിയയുടെ ലക്ഷ്യം അൽഷിമേഴ്സ്Alzheimer's രോഗത്തിനെതിരെ x മരുന്നുകളെ പരീക്ഷിച്ചു നോക്കുക എന്നുള്ളതാണ് അതിനാൽ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നു നോക്കാം തീർച്ചയായും ഈ പ്രക്രിയയ്ക്ക് ഒരു ഇൻ വിട്രോ ട്രയലും ഇൻ വിവോ ട്രയലും ഉണ്ടായിരിക്കണം എന്നാൽ ഇത് അതിൻറെതായ ക്രമത്തിൽ തന്നെ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ശരിയായ ഇൻ വിട്രോ ട്രയൽ ചെയ്യാതെ ഇൻ വിവോ ട്രയലിലേക്ക് പോകാൻ സാധിക്കില്ല ഇനി വ്യവസായത്തിൽ അൽഷിമേഴ്സ്Alzheimer's രോഗത്തിനുള്ള സ്ക്രീനിംഗ്നെ പറ്റി പറയുമ്പോൾ അതിനോട് അനുബന്ധിച്ച് പല പ്രവൃത്തികളും ഉണ്ടാവും എന്നാൽ അതിനെപ്പറ്റി പറയുന്നതിനു മുൻപ് അൽഷിമേഴ്സ്സിൽAlzheimer's എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്തവർക് വേണ്ടി ഈ രോഗത്തിൽ നിങ്ങൾക്ക് തലച്ചോറിലെ ഹിപ്പോകാമ്പൽ ന്യൂറോൺ നഷ്ടമാവും അതിനാൽ തലച്ചോറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് മസ്തിഷ്കം ഇതാണ് മുകളിൽ നിന്നും നോക്കുമ്പോൾ ഉള്ള തലച്ചോറിൻറെ ഡോർസൽ കാഴ്ച ഇതാണ് വെൻട്രൽ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഉള്ള തലച്ചോറിൻറെ വെൻട്രൽ കാഴ്ച ഇത് വെൻട്രൽ ഇത് ഡോർസൽ ഒപ്പം കുറച്ച് ഉള്ളിലേക്ക് കയറിയുള്ള ഈ സ്ഥാനത്താണ് ഹിപ്പോകാമ്പസ് നിങ്ങൾക്ക് വളരെ നല്ല സർജിക്കൽ കഴിവ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ വേർതിരിച്ച് എടുക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെയെങ്കിൽ എളുപ്പത്തിൽ ഈ ടിഷ്യുവിന്റെ പുറത് എടുക്കാം ഇനി അൽഷിമേഴ്സ്സിൽAlzheimer's എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്തവർക്കും അറിയുന്നവർക്കുമായി ഈ സെല്ലുകൾ പ്രധാനമായും പിരമിഡൽ ജ്യോമെട്രിയോട്കൂടിയ ന്യൂറോണുകളാണ് പിരമിഡുകൾ പോലെയാണ് ഇവയുടെ സെൽ ബോഡി കാണപ്പെടുന്നത് പിന്നെ ഇവ വലിയ കോശങ്ങളാണ് അതിനാൽ സെൽ ബോഡിയിലേക്ക് നോക്കിയാൽ ഇതുപോലെ പിരമിഡുകൾ പോലെ ആയിരിക്കും മിക്കതും കാണപ്പെടുന്നത് അതിനാൽ ഇതിൻറെ ഘടനക്ക് മൂന്ന് ഡയമെൻഷൻസ് ഉണ്ട് ആയതിനാൽ ഇതിനെ പിരമിഡൽ ന്യൂറോൺസ് എന്ന് വിളിക്കുന്നു അതിനാൽ ഈ പിരമിഡൽ ന്യൂറോൺകൾ ഈ ഘടനയ്ക്കുള്ളിൽ ഒരു സർക്യൂട്ടിനെ സൃഷ്ടിക്കുന്നു ഇവയെ ca 1 2 3 4 എന്നു വിളിക്കുന്നു ഡെന്റഡ് ഗൈറസ് എന്ന് വിളിക്കുന്ന ഒരു സോണും ഇവിടെയുണ്ട് പിന്നെ അൽഷിമേഴ്സിന്റെAlzheimer's ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ ന്യൂറോണുകൾ മരിക്കാൻ തുടങ്ങും മിക്കവാറും ഇത് പ്രായവുമായി ബന്ധപ്പെട്ട ഡിസോഡർ ആണ് അതിനാൽ അൽഷിമേഴ്സിനെAlzheimer's പറ്റി സംസാരിക്കുമ്പോൾ എല്ലാം ഇത് പ്രായവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയും കാരണം ഇത് പ്രായവുമായി ബന്ധപ്പെട്ട ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് ആണ് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് എന്നാൽ ന്യൂറോൺസിന് പ്രായം ഏറുന്നു എന്നാണ് അതല്ലെങ്കിൽ പ്രായമേറുമ്പോൾ ന്യൂറോൺസിറെയും പ്രായം കൂടുന്നു എന്ന് ഈ ന്യൂറോണുകൾ പിന്നീട് അജ്ഞാത കാരണത്താൽ മരിക്കുന്നു അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രായമാകുന്ന ന്യൂറോണുകൾകായി ഒരു മരുന്ന് സ്ക്രീൻ ചെയ്തു എടുക്കണം ഇതിനായി പിന്തുടർന്നുകൊണ്ടിരുന്ന മാതൃകകളിൽ ചിലത് ഇപ്പോൾ മാറിയിരിക്കുന്നു നിലവിലുള്ള മാതൃക എന്താണെന്ന് ഞാൻ പറയാം ഇതാണ് നിങ്ങളുടെ കേസ് സ്റ്റഡി ഇനി ആളുകൾ പിന്തുടരുന്ന മാതൃകകൾ എന്തൊക്കെയാണെന്നു നോക്കാം ഇതിനായി നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു ഹിപ്പോകാമ്പൽ കൾച്ചർ ആണ് ഇത് പ്രൈമറി കൾച്ചർ ആയിരിക്കണം കാരണം ഹിപ്പോകാമ്പൽ സെൽ ലൈൻ എന്ന ഒന്നില്ല ഈ കോശങ്ങൾ പൂർണ്ണമായും വ്യത്യാസപ്പെട്ട കോശങ്ങളാണ് അതായത് ഹിപ്പോകാമ്പൽ കൾച്ചർസ് ഇനി നിങ്ങൾക്ക് വേണ്ടത് ഡിഫൈൻഡ് മീഡിയം ആണ് പിന്നെ വേണ്ടത് ഡിഫൈൻ സബ്സ്ട്രേറ്റ് ആണ് നാലാമതായി ഡിഫൈൻ ഗ്രോത്ത് കണ്ടീഷൻസും ഇവയൊക്കെയാണ് ഈ കഥയെ കുടുതൽ പര്യവേക്ഷണം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ കാര്യങ്ങൾ അതിനാൽ ആളുകൾ എന്താണ് ചെയ്യുന്നതെന്നും എന്താണ് നിലവിലെ അവസ്ഥ എന്നും നമുക്ക് നോക്കാം ഇപ്പോഴത്തെ ഈ അവസ്ഥയെ പറ്റി ഈ ഭാഗത്ത് പറയാം ഇപ്പോൾ നിങ്ങൾക്ക് ഹിപ്പോകാമ്പൽസ് കൾച്ചർ ഉണ്ട് ഇതിനായി ആളുകൾ ഭ്രൂണ ദിനം പതിനെട്ടിൽ ഉള്ള എലികളെ ആണ് ഉപയോഗിക്കുന്നത് അതായത് ഒരു എലി അതിൻറെ ഗർഭാവസ്ഥയിൽ 21 തൊട്ട് 23 ദിവസം വരെ കടന്നുപോകും ഇതിനിടയിലെ പതിനെട്ടാം ദിവസത്തെ ഫീറ്റ്സ് ഇവിടെ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നു എലികൾ ഒന്നു മുതൽ 21 വരെയും 21 മുതൽ 24 ദിവസം വരെയുള്ള സൈക്കിൾ കടന്നുപോകുമ്പോൾ പതിനാലാം ദിവസം വരെ ഇവയെ എംബ്രിയോ എന്ന് വിളിക്കുന്നു പതിനാലാം ദിവസം തൊട്ട് ജനനം വരെ ഫീറ്റ്സ് എന്നും വിളിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഒരു എലിയുടെ ഗർഭാവസ്ഥയിലെ സൈക്കിൾ പോകുന്നത് ഇവിടെ പതിനെട്ടാം ദിവസത്തിൽ ഹിപ്പോകാമ്പസ് പൂർണ വളർച്ചയിൽ എത്തിയിരിക്കും ഇനി ചെയ്യുന്നത് എന്തെന്നാൽ ഈ അമ്മ എലിയെ നിങ്ങൾ കൊല്ലുക എന്നതാണ് അടുത്ത സ്ലൈഡിലേക്ക് പോകാം അതിൽ കൂടുതൽ വ്യക്തമാക്കാനാവും ഇനി അമ്മ എലിയെ കൊല്ലുക ഇതിനെ എങ്ങനെയാണ് കൊല്ലുന്നത് എന്നത് പ്രധാനമാണ് co2 ഉപയോഗിച്ചുകൊണ്ടാണോ അഥവാ ക്ലോറോഫോം ഉപയോഗിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ സെർവിക്കൽ ഡിസ്ലോക്കേഷൻലൂടെയാണോ എന്നുള്ളത് നിശ്ചയിക്കണം ഇങ്ങനെ ഏത് രീതിയാണ് ഉപയോഗിക്കുന്നതെന്ന് സ്ഥിരീകരിക്കുക ശേഷം ഫീറ്റ്സ് വേർതിരിച്ചെടുത് അവയിൽനിന്നും തലച്ചോറിനെ വിച്ഛേദിച് അതിൽനിന്നും ഹിപ്പോകാമ്പസ് പുറത്തെടുക്കുക ഇപ്പോൾ നിങ്ങളുടെ പക്കൽ തലച്ചോർ ഉണ്ട് പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇതാണ് ഡോർസൽ വശം ഇതാണ് വെൻട്രൽ വശം പിന്നെ ഇതാണ് നിങ്ങൾക്ക് ആവശ്യമായ ടിഷു എന്നും ഹിപ്പോകാമ്പസ് പുറത്തെടുക്കാനായി ശ്രദ്ധയോടെ നിങ്ങളുടെ 2 കൈയും ഉപയോഗിക്കേണ്ടിവരും ഇനി ഇത് പുറത്തെടുത്താൽ ഏകദേശം ഇതുപോലെ ഇരിക്കും ഇതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഫീറ്റൽ ഹിപ്പോകാമ്പസ് ഹിപ്പോകാമ്പസ് എന്നാൽ ഗ്രീക്കിൽ കടൽ കുതിര എന്നാണ് അർത്ഥം കാരണം ഇതിന് കടൽ കുതിരയുടെ ആകൃതി ആണ് അതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത് ഇതാണ് നിങ്ങളുടെ വേർതിരിച്ചെടുത്ത ഹിപ്പോകാമ്പസ് ഇനി നിങ്ങൾ ഇതിനെ വിഘടനം ചെയ്യുന്നു വിഘടനം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്തെന്നാൽ ഈ ടിഷ്യു ഇതുപോലെ പിരമിഡൽ ന്യൂറോണുകളുടെ ഒരു ശൃംഖലയാണെന്ന് സങ്കൽപ്പിക്കുക അതായത് വളരെ ചെറിയ ന്യൂറോണുകൾ ചേർന്നുണ്ടാക്കിയ ഒരു വലിയ ശൃംഖല ഇതിനിടയിൽ ധാരാളം എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് ഉണ്ടാവും അതായത് ഞാൻ ഇവിടെ 2 3 ന്യൂറോൺ എന്ന നൽകുന്നു കാരണം ഇതുപോലെ ആയിരക്കണക്കിന് ന്യൂറോണുകൾ ചേർന്നാണ് ഈ ടിഷ്യു ഉണ്ടാവുന്നത് ഇവിടെ ചില xyz ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരൊറ്റ സസ്പെൻഷനായി ഈ സെല്ലുകളെ വിഭജിക്കുവാൻ നിങ്ങൾക്ക് അറിയണം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാൽ സെല്ലുകൾ ഇതുപോലെ വേർതിരിച്ചു വെക്കുന്നു പക്ഷേ ഈ പ്രക്രിയ ചെയ്യുമ്പോൾ ഇവയിൽ ചിലത് തകർന്നുപോകും ഇങ്ങനെ വരുമ്പോൾ ഒരൊറ്റ സെൽ സസ്പെൻഷൻ ആയി കിട്ടുന്നത് പലതും തകർന്നതാവും ഇതുപോലാവും നിങ്ങൾക്ക് കിട്ടുന്നത് ഇതാണ് നിങ്ങൾ പുറത്തെടുക്കാൻ പോകുന്ന ഓരോ കോശങ്ങൾ ഇതിനെയാണ് സിംഗിൾ സെൽ സസ്പെൻഷൻ എന്ന് വിളിക്കുന്നത് ഈ ഭാഗത്തെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാവും ഇത് ചെയ്യുക നിങ്ങളുടെ ഓപ്ഷനുകൾ ഒന്നുകിൽ നിങ്ങൾ ടിഷ്യു യാന്ത്രികമായി വിച്ഛേദിക്കുക യാന്ത്രികമായി വിച്ഛേദിക്കുമ്പോൾ ടിഷ്യു വളരെ മൃദുവായതിനാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് പൈപ്പറ്റ് ടിപ്പ് എടുത്ത് അതിൻറെ ടിപ്പ് അല്പം മുറിക്കുക അതായത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇതുപോലൊരു പൈപ്പറ്റ് ടിപ്പ് ഉണ്ട് നിങ്ങൾ ഇത് മുറിക്കുന്നു ഇപ്പോൾ അവശേഷിക്കുന്നത് ഇതുപോലൊരു വെളുത്ത കുഴലാണ് നിങ്ങളുടെ ടിഷ്യു ഈ മീഡിയമ്മിൽ ഉണ്ട് ശേഷം പൈപ്പറ്റ് ഉപയോഗിച്ചുകൊണ്ട് ടിഷ്യുനെ അകത്തേക്കും പുറത്തേക്കും വീണ്ടും വീണ്ടും എടുക്കുന്നു ഈ പ്രക്രിയയിലൂടെ നിങ്ങൾക്ക് സിംഗിൾ സെൽ സസ്പെൻഷൻ ലഭ്യമാകും ഒരുതരം ഷിയർ ഫോഴ്സിലൂടെയാണ് ടിഷ്യുനെ നിങ്ങൾ തകർക്കുന്നത് ഇതൊരു ബ്രൂട്ട് ഫോഴ്സ് രീതിയാണ് എന്നാൽ ടിഷ്യുവിൻറെ കാര്യത്തിൽ ഇതൊരു ഒരു മൃദുവായ രീതിയാണ് പ്രത്യേകിച്ചും ഹിപ്പോകാമ്പൽ ന്യൂറോൺൻറെ കാര്യത്തിൽ ഇതിൽ വളരെ നല്ലതാണ് ഇനി ഞാൻ ഇവിടംകൊണ്ട് നിർത്തുകയാണ് അടുത്ത ക്ലാസ്സിൽ ഈ ടിഷ്യുനെ എങ്ങനെ പ്ലേറ്റ് ചെയ്യുമെന്ന് അറിയാൻ ഇവിടെ നിന്നു തന്നെ തുടങ്ങാം കാരണം ഈ പ്രക്രിയയിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ കഴിഞ്ഞ സൈഡിലേക്ക് പോയാൽ അവിടെ സെൽ പ്ലേറ്റിംഗ് റൂളിനെ പറ്റിയും ഏജ് ഐസൊലേഷൻ റൂളിനെ പറ്റിയും സംസാരിച്ചിരുന്നു അതിനാൽ ഐസൊലേഷൻ റൂളിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതാണ് നിങ്ങൾക്ക് പിന്തുടരാൻ ആവുന്നിടത്തോളം ഓർമ്മയിൽ വെക്കേണ്ട മാപ്പ് എന്നാൽ ഈ ലെക്ചർക്കൾ നിങ്ങൾക്ക് സുഗമമായി പിന്തുടരാൻ ആവും അതിനാൽ ഞാൻ ഇവിടെ നിർത്തുന്നു നമുക്ക് ഈ ഹിപ്പോകാമ്പൽ കാര്യവുമായി തുടരാം പിന്നെ വ്യവസായങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും സംസാരിക്കാം